ഹൈസെൻബെർഗ് ട്രാൻസിഷൻ ആംപ്ലിട്യൂഡ് അഥവാ ട്രാൻസിഷൻ മെട്രിക്സ് ഘടകങ്ങൾ ഉപയോഗിച്ച് രൂപവത്കരിച്ചതും പിന്നീട് മാക്സ് ബോൺ ഹൈസെൻബെർഗ് പാസ്കൽ ജോർദാൻ ഇവർ ചേർന്ന് മെട്രിക്സ് മെക്കാനിക്സ് ഉപയോഗിച്ച് പരിഷ്കരിച്ചതുമായ ക്വാണ്ടം മെക്കാനിക്സ് ന്റെ ആശയ രൂപീകരണം വളർച്ച ഇവയെകുറിച്ചായിരുന്നു കഴിഞ്ഞ 3 ആഴ്ചത്തെ ക്ലാസ്സുകളിലും നമ്മൾ പ്രതിപാദിച്ചത് ഇതിന്റെ അവസാനഭാഗം ഞാൻ വ്യക്തമാക്കിയ ഒരു കാര്യം മെട്രിക്സ് മെക്കാനിക്സിലൂടെ ക്വാണ്ടം മെക്കാനിക്കൽ സിസ്റ്റം അപഗ്രഥിക്കുന്നത് കാര്യങ്ങൾ വളരെ സങ്കീർണമാക്കുമെന്നും എന്നാൽ എർവിൻ ഷ്രോടിൻജർ വികസിപ്പിച്ചെടുത്ത വേവ് മെക്കാനിക്സ് ന്റെ ഉത്ഭവത്തിലൂടെ ക്വാണ്ടം മെക്കാനിക്സ് വളരെ എളുപ്പമായി തീർന്നുമെന്നുമാണ് വേവ് മെക്കാനിക്സ് അനുസരിച്ച് പാർട്ടിക്കിളിന് വേവ് അഥവാ തരംഗ സ്വഭാവമുള്ളതായാണ് കണക്കാക്കുന്നത് വേവ് മെക്കാനിക്സ് എങ്ങനെ വികസിപ്പിച്ചെടുക്കുമെന്നും ഇത് എങ്ങനെ ഹൈസെൻബെർഗിന്റെ രീതിയ്ക്ക് തത്തുല്യമാകുമെന്നും അടുത്ത രണ്ടാഴ്ചത്തെ ക്ലാസുകളിൽ കാണിച്ചു തരാം ക്വാണ്ടം മെക്കാനിക്സ് എങ്ങനെ പൂർണ്ണതയിലെത്തുന്നു എന്ന് മനസിലാക്കുന്നതോടൊപ്പം ഇതിനെ പ്രായോഗികതലത്തിൽ ഉപയോഗിക്കുന്ന രീതിയും നമുക്ക് ചർച്ച ചെയ്യാം എന്നാൽ ഇന്നത്തെ ക്ലാസിൽ വേവ്സ് അഥവാ തരംഗങ്ങളെ ഫിസിക്സിൽ എങ്ങനെ വിവരിക്കാം അഥവാ അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് കാണിക്കാൻ പോകുന്നത് ആദ്യം നമുക്ക് വേവ്സ് എന്താണെന്ന് മനസിലാക്കാം എന്താണ് വേവ്സ് അഥവാ തരംഗങ്ങൾ തരംഗങ്ങൾ എന്നാൽ ഒരിടത്തുനിന്നും മറ്റൊരിടത്തേക്ക് നീങ്ങുന്ന ഒരു വസ്തുവാണോ അതോ ഒരിടത്തുണ്ടാകുന്ന വിക്ഷോഭം അഥവാ ഡിസ്റ്റർബൻസ് മറ്റൊരിടത്തേക്ക് കൂടി വ്യാപിക്കുന്നതാണോ വേവ്സ് എന്നാൽ വിക്ഷോഭത്തിന്റെ സഞ്ചാരമാണ് എന്നതാണ് ഇതിനുള്ള ഉത്തരം ഉദാഹരണമായി ഒരു പരന്ന പാത്രത്തിൽ വെള്ളമെടുത്ത് അതിൽ നിങ്ങളുടെ വിരൽ മുക്കുകയാണെങ്കിൽ അവിടെ ഒരു വിക്ഷോഭം സൃഷ്ടിക്കപ്പെടുന്നതായും അത് അവിടെനിന്നും വെള്ളത്തിൽ കൂടി വൃത്താകൃതിയിൽ വ്യാപിക്കുന്നതായും കാണാം ഇവിടെ ദ്രവ്യം ഒരു ഭാഗത്തുനിന്നും മറ്റൊരു ഭാഗത്തേക്ക് സഞ്ചരിക്കുന്നില്ല മറിച്ച് വിക്ഷോഭം മാത്രം സഞ്ചരിക്കയാണ് ഇതുപോലെ തന്നെ ഞാനിവിടെ സംസാരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ അന്തരീക്ഷത്തിൽ പ്രഷർ വ്യതിയാനത്തിന്റെ രൂപത്തിൽ വിക്ഷോഭം ഉണ്ടാക്കപ്പെടുന്നു ഈ വിക്ഷോഭമാണ് അന്തരീക്ഷത്തിലൂടെ സഞ്ചരിക്കുന്നത് അല്ലാതെ അന്തരീക്ഷത്തിലെ കണങ്ങൾ അല്ലെങ്കിൽ വായു അല്ല അപ്പോൾ വേവ് എന്നാൽ എന്താണ് തത്കാലം നമുക്ക് ഇതിനെ ഒരു മീഡിയം അഥവാ മാധ്യമത്തിലൂടെയുള്ള വിക്ഷോഭത്തിന്റെ സഞ്ചാരമായി കണക്കാക്കാം എന്നാൽ ഇലക്ട്രോമാഗ്നെറ്റിക് വേവ്സ് അഥവാ വൈദ്യുത കാന്തിക തരംഗങ്ങൾക്ക് സഞ്ചരിക്കാൻ മാധ്യമത്തിന്റെ ആവശ്യമില്ല അപ്പോൾ വേവിന്റെ നിർവചനം മാധ്യമത്തിലൂടെയോ ശൂന്യതയിലൂടെയോ ഉള്ള വിക്ഷോഭത്തിന്റെ സഞ്ചാരം എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ ശരി ഇവിടെ ഉദാഹരണമായി ഇലക്ട്രോമാഗ്നെറ്റിക് വേവ്സ് എടുത്താൽ നമുക്കറിയാം ഇത് ഇലക്ട്രിക്ക് ഫീൽഡ് മാഗ്നെറ്റിക് ഫീൽഡ് ഇവയുളവാകുന്ന വിക്ഷോഭമാണ് എന്ന് തരംഗങ്ങൾ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ അതിന് ഒരു നിശ്ചിത വേഗതയുണ്ട് ഇങ്ങനെയുള്ള ഒരു തരംഗത്തിനെ മാത്തമാറ്റിക്കലി അഥവാ ഗണിത ഭാഷയിൽ സൂചിപ്പിക്കുന്നത് എങ്ങനെയെന്നു നോക്കാം അപ്പോൾ നമുക്ക് തരംഗത്തിനെ ഗണിത ഭാഷയിൽ സൂചിപ്പിക്കാം ഇത് നമ്മൾ പ്രകീർണ്ണനം അഥവാ ഡിസ്പെർഷൻ സംഭവിക്കാൻ സാധ്യതയില്ലാത്ത തരംഗങ്ങളിൽ മാത്രമായി ഒതുക്കുകയാണ് അത്രയും മാത്രമേ നമുക്കാവശ്യമുള്ളൂ ഇതിനർത്ഥം എന്താണ് ഇത്തരം വേവ്സ് സഞ്ചരിക്കുമ്പോൾ അഥവാ ഒരിടത്തുണ്ടായ വിക്ഷോഭം ചുറ്റും വ്യാപിക്കുമ്പോൾ അതിന് രൂപമാറ്റമുണ്ടാവുന്നില്ല എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് ഞാനീ പരന്ന പത്രത്തിലെ വെള്ളത്തിൽ ഇങ്ങനെ ഒരു വിക്ഷോഭം ഉണ്ടാക്കുകയാണെങ്കിൽ ഇത് അല്പദൂരം സഞ്ചരിച്ചതിനുശേഷവും ഇതേ രൂപത്തിൽ തന്നെ ഉണ്ടാകും മറ്റൊരു ഉദാഹരണമെടുക്കയാണെങ്കിൽ ഞാൻ നിങ്ങളോടു സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ഇവിടെ നിന്നുകൊണ്ട് ഞാൻ പുറത്തു നിൽക്കുന്ന ആരോടെങ്കിലും സംസാരിക്കുമ്പോൾ അവർ 20 30 മീറ്റർ അകലെയാണെങ്കിൽ പോലും ഞാൻ ഉച്ചരിക്കുന്ന വാക്കുകൾ അതേപടി കേൾക്കുകയാണെങ്കിൽ അതിനർത്ഥം ആ വാക്കുകൾ അല്ലെങ്കിൽ അത് അന്തരീക്ഷത്തിൽ ഉണ്ടാക്കിയ വിക്ഷോഭം ഒട്ടും രൂപാന്തരം അഥവാ ഡിസ്റ്റോർഷൻ സംഭവിക്കാതെ അവിടെയെത്തി എന്നാണ് ഇത്തരം തരംഗങ്ങളെയാണ് പ്രകീർണ്ണനം സംഭവിക്കാത്ത അല്ലെങ്കിൽ ഡിസ്പെർഷൻ ഇല്ലാത്ത തരംഗങ്ങൾ എന്ന് പറയുന്നത് ഇതേപോലെ ഒരു വലിച്ചു നീട്ടിയ ചരടിൽ ഞാൻ ഒരു പൾസ് ഉണ്ടാക്കിയാൽ അത് രൂപവ്യത്യാസമില്ലാതെ ചരടിലൂടെ മുന്നോട്ടു പോകുന്നുവെങ്കിൽ അത് പ്രകീർണ്ണനം സംഭവിക്കാത്ത തരംഗങ്ങൾ ആണ് അത്തരം പൾസ് ചിലപ്പോൾ പ്രതിപതനം അഥവാ റിഫ്ലെക്ഷൻ സംഭവിച്ച് തിരിച്ചു വരാം ഇപ്രകാരം പ്രകീർണ്ണനം സംഭവിക്കാത്ത തരംഗങ്ങളെയാണ് നമ്മളിപ്പോൾ മാത്തമാറ്റിക്കലി സൂചിപ്പിക്കാൻ തുടങ്ങുന്നത് ഇവിടെ ഞാൻ ആശയം വ്യക്തമാക്കാനായി 1 ഡയമെൻഷനിൽ മാത്രം കാര്യങ്ങൾ ഒതുക്കുകയാണ് പിന്നീട് 3 ഡയമെൻഷനുവേണ്ട ഇക്വേഷൻ കൂടി എഴുതാം അപ്പോൾ 1 ഡയമെൻഷനിൽ ഒരു ഡിസ്റ്റർബൻസ് X ആക്സിസിൽ കൂടെ v സ്പീഡിൽ മുന്നോട്ടു സഞ്ചരിക്കുന്നുവെന്ന് സങ്കൽപ്പിക്കുക അടുത്ത സ്ലൈഡിൽ ഞാനിത് വരച്ചു കാണിക്കാം ഇതാണ് X ആക്സിസ് ഇതാണ് ഒറിജിൻ സീറോ ഇവിടെ ഞാൻ രണ്ടു സന്ദർഭങ്ങൾ എടുക്കുകയാണ് ഒന്നിൽ ഏതെങ്കിലും രീതിയിലുള്ള ഡിസ്റ്റർബൻസ് ആക്സിസിൽ കൂടി വലത്തോട്ടേക്കു v സ്പീഡിൽ സഞ്ചരിക്കുന്നു അടുത്തത്തിൽ ഡിസ്റ്റർബൻസ് ആക്സിസിൽ കൂടി ഇടത്തോട്ടേക്ക് v സ്പീഡിൽ സഞ്ചരിക്കുന്നു രണ്ടു സന്ദർഭങ്ങളിലും തരംഗത്തിന് ഡിസ്റ്റോർഷൻ ഒട്ടുമില്ല ടൈം t 0 ആയിരിക്കുമ്പോൾ ഫങ്ക്ഷൻ f x t0 ആണെങ്കിൽ ഒറിജിനിൽ നിന്നും x ദൂരത്തിൽ ഫങ്ക്ഷൻ എന്തായിരിക്കും ഇത് കാണാൻ വളരെ എളുപ്പമാണ് x ദൂരത്തിൽ ഉണ്ടാകുന്ന വിക്ഷോഭം x vt ദൂരത്തിൽ t 0 ആയിരുന്നപ്പോൾ ഉണ്ടായിരുന്ന വിക്ഷോഭം തന്നെ ആയിരിക്കും അപ്പോൾ ഇത് f x v t t 0 ആയിരിക്കും അതായത് അപ്പോൾ പൊതുവായി നമുക്ക് ഇങ്ങനെ പറയാൻ സാധിക്കും x1 ദൂരത്തിൽ t t1 ആയിരുന്നപ്പോൾ ഒരു വിക്ഷോഭം ഉണ്ടായിരുന്നെന്ന് കരുതുക ഇതിനെ ഞാൻ x t ഇവയുടെ ഫങ്ക്ഷൻ ആയി നിരീക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് ഇതിനെ എന്നെഴുതാൻ സാധിക്കും വേവ് t സമയം കൊണ്ട് vt ദൂരം സഞ്ചരിക്കുമെന്നതിനാൽ ഒറിജിനിൽ t സെക്കന്റ് മുൻപ് സംഭവിച്ച വിക്ഷോഭം ഈ സമയം കൊണ്ട് x ലേക്ക് മാറ്റപ്പെടുന്നു നമ്മൾ എഴുതിയ രണ്ട് ഇക്വേഷനും X ആക്സിസിന്റെ പോസിറ്റീവ് വശത്തേക്ക് സഞ്ചരിക്കുന്ന തരംഗത്തിനെ സൂചിപ്പിക്കുന്നു X ആക്സിസിന്റെ നെഗറ്റീവ് വശത്തേക്ക് സഞ്ചരിക്കുന്ന തരംഗത്തിനെ എങ്ങനെ സൂചിപ്പിക്കാം ഇത് നമുക്ക് എന്നും പൊതുവായി എന്നും എഴുതാം അതായത് നെഗറ്റീവ് X ദിശയിലേക്ക് പോകുമ്പോൾ സൈൻ മാറുന്നു ഇത് മറ്റൊരു രീതിയിലും നമുക്ക് കണ്ടുപിടിക്കാം മറ്റൊരു രീതിയിൽ ഇത് എടുത്താൽ ഡിസ്റ്റൻസ് x ൽ ടൈം t യിലുള്ള വിക്ഷോഭം ഡിസ്റ്റൻസ് x 0 വിൽ ടൈം tt xv യിലുണ്ടായിരുന്ന വിക്ഷോഭത്തിനു തുല്യമായിരിക്കും കാരണം t സമയം കൊണ്ട് പൾസ് vt ദൂരം സഞ്ചരിച്ചിട്ടുണ്ട് അതായത് പൾസ് ഇത്രയും ദൂരം നീങ്ങാൻ x v ടൈം എടുത്തു അതുകൊണ്ട് പൾസ് നെഗറ്റീവ് വശത്തേക്കാണ് സഞ്ചരിക്കുന്നതെങ്കിൽ അപ്പോൾ നമ്മളെന്താണ് ഇതുവരെ കണ്ടത് ഒരു പ്രകീർണ്ണനം ഇല്ലാത്ത പ്രയാണ തരംഗം അഥവാ ട്രാവെല്ലിങ് വേവ് f അല്ലെങ്കിൽ ft x v എന്നിങ്ങനെ രണ്ട് രീതിയിൽ എഴുതാവുന്നതാണ് ഉദാഹരണമായി എന്നത് പോസിറ്റീവ് X ദിശയിലേക്കുള്ള ഒരു പ്രയാണ തരംഗം അഥവാ ട്രാവെല്ലിങ് വേവ് ആണ് t 0 ആകുമ്പോൾ ഇതിനെ എന്ന് എഴുതാം ടൈം കൂടുന്നതിനനുസരിച്ച് വേവ് പോസിറ്റീവ് ദിശയിലേക്ക് vt ദൂരം സഞ്ചരിക്കുന്നു എന്നാൽ എന്ന വേവ് ഇക്വേഷൻ സൂചിപ്പിക്കുന്നത് നെഗറ്റീവ് X ദിശയിലേക്ക് v വെലോസിറ്റിയിൽ സഞ്ചരിക്കുന്ന തരംഗത്തെയാണ് ട്രാവെല്ലിങ് വേവ് മറ്റൊരു രീതിയിലും പ്രതിനിധാനം ചെയ്യാമെന്ന് നേരത്തെ പറഞ്ഞിരുന്നല്ലോ അതനുസരിച്ച് ഇങ്ങനെയും ട്രാവെല്ലിങ് വേവിനെ പ്രതിനിധീകരിക്കാം അതായത് ഒരു ബിന്ദുവിൽ t ടൈമിലുള്ള വിക്ഷോഭം എന്നത് t - xv ടൈമിൽ x 0 വിലുണ്ടായിരുന്ന വിക്ഷോഭത്തിനു തുല്യമാണ് ഇതാണ് പ്രയാണ തരംഗങ്ങളെ പ്രതിനിധീകരിക്കുന്ന രണ്ടു രീതികൾ അടുത്തതായി ഒരറ്റം ഭിത്തിയിലോ മറ്റോ ഉറപ്പിച്ച ഒരു നീണ്ട ചരടിന്റെ മറ്റേ അറ്റം അതായത് x 0 എടുത്തിരിക്കുന്ന ഈ അറ്റം പിടിച്ച് മുകളിലേക്കും താഴേക്കും ചലിപ്പിക്കുന്നതായി സങ്കൽപ്പിക്കുക മുകളിലേക്ക് അല്ലെങ്കിൽ താഴേക്കുള്ള ഡിസ്പ്ലേസ്മെന്റ് y എന്നെടുത്താൽ ഇവിടെ A എന്നത് ആംപ്ലിട്യൂഡ് ആണ് ഇങ്ങനെ മുകളിലേക്കും താഴേക്കും ചലനമുണ്ടാകുമ്പോൾ x t ഇവയുടെ ഫങ്ക്ഷൻ ആയി x ദൂരത്തിലുള്ള ഡിസ്പ്ലേസ്മെന്റ് എന്തായിരിക്കും നേരത്തെ നമ്മൾ പറഞ്ഞതനുസരിച്ച് വേവ് സഞ്ചരിക്കാൻ തുടങ്ങിയ ശേഷം ഏതെങ്കിലും ബിന്ദുവിലെ ഡിസ്പ്ലേസ്മെന്റ് കാണുകയാണ് എന്റെ ഉദ്ദേശം എങ്കിൽ വേവ് ബിന്ദു കടന്നിട്ടുണ്ടാവുന്ന രീതിയിലുള്ള ടൈം t ആണ് ഇവിടെ എടുക്കേണ്ടത് അപ്പോൾ ഒറിജിനിൽ നിന്നും അല്പം മാറിയുള്ള ഒരു ബിന്ദു എടുത്താൽ അവിടെയുള്ള ഡിസ്പ്ലേസ്മെന്റ് x 0 എന്ന ഒറിജിനിൽ ടൈം t - xv യിലുണ്ടായിരുന്ന ഡിസ്പ്ലേസ്മെന്റ് തന്നെ ആയിരിക്കും നമ്മൾ എഴുതിയ ഇക്വേഷനിൽ നിന്നും മനസിലാകും ഇതൊരു സൈനുസോയിഡലായുള്ള വേവ് ആണെന്ന് ഇതിനെ നമുക്ക് മറ്റൊരു രീതിയിൽ എഴുതാം ഞാനിവിടെ ⍵ ബ്രാക്കറ്റിനുള്ളിലേക്കെടുത്താൽ

എന്നാൽ അതായത് കാരണം 2πλ k ⍵v ഇവിടെ k എന്നത് വേവ് നമ്പർ ആണ് ഇതിനെ വേണെമെങ്കിൽ A B എന്നെടുത്ത് എന്നും എഴുതാം ഇത് ഏതു രീതിയിൽ എഴുതിയാലും x v t അല്ലെങ്കിൽ t - xv ഇവയുടെ ഏതെങ്കിലും രൂപമുണ്ടെങ്കിൽ മാത്രമേ അവ ട്രാവെല്ലിങ് വേവ് ആവുകയുള്ളൂ നമുക്ക് തോന്നുന്ന ഒരു സംശയം ട്രാവെല്ലിങ് വേവ് സൈൻ വേവ് രൂപത്തിൽ മാത്രമേ ഉണ്ടാവൂ എന്നുള്ളതാണ് ആയിരിക്കണമെന്നില്ല ഉദാഹരണമായി ഞാൻ ഇതേ ചരടിനെ അൽപനേരം മുകളിലേക്കുയർത്തിപ്പിടിച്ച് പൂർവ്വസ്ഥിതിയിലാക്കുക അതായത് ഞാനിവിടെ ഒരു വിക്ഷോഭം സൃഷ്ടിച്ചിരിക്കുകയാണ് ഇത് xt ഇവയുടെ ഫങ്ക്ഷൻ ആയി എങ്ങനെ എഴുതാൻ പറ്റും എന്ന് നോക്കാം

ഇവിടെ അല്പം വിശദമായി കാൽക്കുലേഷൻ ചെയ്താൽ നിങ്ങൾക്ക് മനസിലാകും ഇവിടെ പോസിറ്റീവ് X ദിശയിൽ സഞ്ചരിക്കുന്ന ഒരു സ്ക്വയർ വേവ് ആണ് ഉണ്ടായിരിക്കുന്നതെന്ന് സ്ക്വയർ വേവിന്റെ ആംപ്ലിട്യൂഡ് A ആണ് ഇവിടെ വേവ് നെഗറ്റീവ് X ദിശയിലാണു സഞ്ചരിക്കുന്നതെങ്കിൽ നമുക്ക് നേരത്തെ എഴുതിയ ഇക്വേഷൻ ഇങ്ങനെയെഴുതാം

അപ്പോൾ ഡിസ്റ്റർബൻസ് പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് X ദിശയിൽ സഞ്ചരിക്കുന്നതാവാം ഒരു ശുദ്ധ ഹാർമോണിക് വേവിന്റെ ആംപ്ലിട്യൂഡ് വ്യതിയാനം sin ωt യുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പൊതുവായി പറയുകയാണെങ്കിൽ വേവിന്റെ ഘടന അല്ലെങ്കിൽ രൂപം ഏതുമാവാം ഹാർമോണിക് സൈനുസോയിഡൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രൂപമാവാം ഇവിടെ വിക്ഷോഭത്തിന് അഥവാ ഡിസ്റ്റർബൻസിന് രൂപാന്തരം സംഭവിക്കുന്നില്ല ഇതുതന്നെയാണ് ട്രാവെല്ലിങ് വേവ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അടുത്തതായി നമുക്ക് ഇത്തരം വേവിന്റെ ചലനത്തെ നിയന്ത്രിക്കുന്ന വേവ് ഇക്വേഷൻ എഴുതാം ഇവിടെ ഇതിനെ t - xv യുടെ ഫങ്ക്ഷൻ ആയി എടുക്കാം അതായത് f t - xv ഇതിൽ t - xv എന്നതിന് പകരം z എടുത്ത് f ന്റെ പാർഷ്യൽ ഡെറിവേറ്റീവ് t യുമായി ബന്ധപ്പെടുത്തി എടുത്താൽ അപ്പോൾ പോസിറ്റീവ് X ദിശയിലേക്കു സഞ്ചരിക്കുന്ന ഒരു വേവിന്റെ ഇക്വേഷൻ എന്നെഴുതാം അതായത് ഈ ഇക്വേഷന്റെ സൊല്യൂഷൻ എന്തായിരിക്കും നമ്മളിവിടെ ഇക്വേഷനിലേക്കെത്തിയത് സൊല്യൂഷനിൽ നിന്ന് തുടങ്ങി കൊണ്ടായിരുന്നു നിങ്ങൾക്കറിയാം ഈ സൊല്യൂഷൻ f t xv ആണെന്ന് f എന്നതും ഇതിന്റെ സൊല്യൂഷൻ തന്നെയാണ് ഇതേ രീതിയിൽ നെഗറ്റീവ് X ദിശയിൽ സഞ്ചരിക്കുന്ന തരംഗത്തിനെ f t xv എന്ന് സൂചിപ്പിക്കാവുന്നതാണ്

തന്നെ ആയിരിക്കും എന്നാൽ എന്നായി മാറുന്നു അപ്പോൾ അതായത് അപ്പോൾ എനിക്ക് രണ്ടു ഇക്വേഷൻ ലഭിച്ചു പോസിറ്റീവ് X ദിശയിൽ സഞ്ചരിക്കുന്ന വേവ് എടുത്താൽ അതുപോലെ നെഗറ്റീവ് X ദിശയിൽ സഞ്ചരിക്കുന്ന വേവിന്റെ ഇക്വേഷൻ പക്ഷെ ഇങ്ങനെ വേവ് സഞ്ചരിക്കുന്ന ദിശയ്ക്കനുസരിച്ച് വ്യത്യസ്ത ഇക്വേഷനുകൾ ഓർത്തുവെക്കുന്നത് വളരെ ശ്രമകരമാണ് അതായത് വേണോ വേണോയെന്ന് ഓർത്തുവെക്കുന്നത് വിഷമകരമാണ് അതുകൊണ്ട് ഞാൻ ഈ ഇക്വേഷനുകൾ രണ്ടും കൂട്ടി ചേർക്കുകയാണ് അപ്പോൾ ഒരു ട്രാവെല്ലിങ് വേവിന് ഇതിന്റെ സെക്കന്റ് ഡെറിവേറ്റീവ് എടുത്താൽ അപ്പോൾ പൊതുവായി ഈ ഇക്വേഷൻ പൊതുവായി പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് ദിശയിലേക്കു സഞ്ചരിക്കുന്ന ഒരു വേവിനെ സൂചിപ്പിക്കുന്നു അപ്പോൾ എന്ന് കിട്ടും ഇതിനെ മാറ്റി എഴുതിയാൽ ഈ ഇക്വേഷൻ പൊതുവായി പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് ദിശയിലേക്കു സഞ്ചരിക്കുന്ന ഒരു വേവിനെ അല്ലെങ്കിൽ ഇത്തരം രണ്ടു തരത്തിലുമുള്ള വേവിന്റെ ലീനിയർ കോംബിനേഷനെ സൂചിപ്പിക്കുന്നു അതായത് ഇക്വേഷന്റെ പൊതുവായുള്ള സൊല്യൂഷൻ എന്നത് f യും മറ്റൊരു ഫങ്ക്ഷൻ g x v t യും ചേർത്ത് എഴുതാവുന്നതാണ് അതായത് ഈ രണ്ടു ഫങ്ക്ഷനും വേവ് ഇക്വേഷന്റെ സൊല്യൂഷൻ ആയിരിക്കും ഇവിടെ f എന്നത് പോസിറ്റീവ് X ദിശയിലേക്കുള്ള ഡിസ്റ്റർബൻസിനേയും g എന്നത് നെഗറ്റീവ് X ദിശയിലേക്കുള്ള ഡിസ്റ്റർബൻസിനേയും സൂചിപ്പിക്കുന്നു നേരത്തെ പറഞ്ഞതുപോലെ ഇവയുടെ കോമ്പിനേഷനും വേവ് ഇക്വേഷന്റെ സൊല്യൂഷൻ ആയിരിക്കും കാരണം ഇത് പോസിറ്റീവ് X ദിശയിലേക്കും നെഗറ്റീവ് X ദിശയിലേക്കും ഉള്ള തരംഗങ്ങളെ സൂചിപ്പിക്കുന്നു ഇത് സ്ഥിര തരംഗങ്ങൾ അഥവാ സ്റ്റേഷനറി വേവ്സ് നെയും പ്രതിനിധാനം ചെയ്യുന്നുണ്ട് പോസിറ്റീവ് X ദിശയിലേക്കും നെഗറ്റീവ് X ദിശയിലേക്കും സഞ്ചരിക്കുന്ന ഒരേ ഫ്രീക്വൻസിയും ഒരേ തരംഗ ദൈർഘ്യം അഥവാ വേവ് ലെങ്ത് ഉം ഉള്ള രണ്ടു തരംഗങ്ങളുടെ ലീനിയർ കോമ്പിനേഷൻ ആണ് സ്റ്റേഷനറി വേവ്സ് ഇത്തരം തരംഗങ്ങൾ നിശ്ചലമെന്നപോലെയാണ് വർത്തിക്കുന്നത് ഇതിനെക്കുറിച്ച് അടുത്ത ക്ലാസിൽ തുടരാം